ഇത്രയും സമയം നമ്മൾ മുഖത്തെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് മുഖത്തേക്കാണ് നോക്കിയിരുന്നത് അതുകൂടാതെ നമ്മൾ പെരുമാറ്റത്തെ സംബന്ധിച്ചും സംസ്കാരത്തെ സംബന്ധിച്ചും എല്ലാം നോക്കി കാണുകയുണ്ടായി എന്നാൽ ഇനിയും നമ്മൾ തലച്ചോറിലേക്ക് പ്രവേശിച്ചിട്ടില്ല ഇപ്പോൾ ഈ ക്ലാസിൽ നമ്മൾ പ്രധാനമായും രണ്ടു കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒന്നാമത്തേത് വൈകാരിക പ്രതികരണങ്ങളുടെ ജീവശാസ്ത്രപരമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കാണും രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻറെ വികാരങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്താണ് അതിൻറെ പ്രാധാന്യത്തിന് കാരണം മനുഷ്യനിൽ ഉണരുന്ന ഓരോ അടിസ്ഥാന വികാരങ്ങളും ഒരു അളവ് വരെ ശരീരത്തിൻറെ ചലന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു വ്യക്തിയ്ക്ക് കോപം വരികയാണെങ്കിൽ അയാളുടെ ഹൃദയമിടിപ്പ് വർധിക്കുന്നു രക്തപ്രവാഹം ശീഘ്ര ഗതിയിലാകുന്നു മാത്രമല്ല കൈകളിലേക്ക് ക്രമാതീതമായ രക്തപ്രവാഹം ഉണ്ടാകുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒരു വ്യക്തിക്ക് ദേഷ്യം വരുമ്പോൾ അതിൻറെ ബാക്കിപത്രമായി അയാളുടെ ഹൃദയമിടിപ്പ് വർധിക്കുന്നു രക്തപ്രവാഹം ശീഘ്ര ഗതിയിലാകുന്നു അതിൻറെ ഫലമായി അയാളുടെ കൈകളിലേക്ക് ആനുപാതികമല്ലാത്ത വിധം വളരെ ഉയർന്ന അളവിൽ രക്തഓട്ടം സംഭവിക്കുന്നു അടിസ്ഥാനപരമായി ശാരീരികമായിത്തന്നെ ഇതിന് വളരെ പ്രാധാന്യമുണ്ട് അതിജീവനവുമായി ബന്ധപ്പെട്ട പ്രാധാന്യമാണത് അതായത് ഈ വിധത്തിലുള്ള ശാരീരിക വ്യതിയാനത്തിലൂടെ പുറത്തുനിന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന ആ ഭീഷണിയെ നേരിടുവാൻ ശരീരം നിങ്ങളെ സജ്ജമാക്കുകയാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഉണ്ടാകുന്ന അമിതമായ രക്ത പ്രവാഹം നിങ്ങൾക്ക് പുറത്ത് നിന്നുണ്ടാകുന്ന ആ വെല്ലുവിളിയെ എതിർക്കുവാൻ നിങ്ങളെ സജ്ജമാക്കുന്നു നിങ്ങൾ ദേഷ്യത്തിലാണെങ്കിൽ നിങ്ങളുടെ ദേഷ്യത്തിന്റെ അടിസ്ഥാനകാരണത്തിലേക്ക് നിങ്ങളുടെ കോപം നിങ്ങളെ ചലിപ്പിക്കും കോപത്തിന് കാരണമായ ബാഹ്യ ശക്തിയെ കീഴടക്കുവാൻ നിങ്ങൾ ശ്രമിക്കും കാരണം ശാരീരികമായി നിങ്ങൾ ഇപ്പോൾ അതിനു സജ്ജമാണ് അഥവാ സജ്ജമാകേണ്ടിയിരിക്കുന്നു അതല്ലാത്ത പക്ഷം നിങ്ങൾ നിലനിൽപ്പിനുവേണ്ടി അനുനയത്തിന് ശ്രമിക്കുകയെ ഉള്ളൂ ബാഹ്യ ശക്തിയെ എതിരിടുവാൻ നിങ്ങളെ സജ്ജമാക്കുന്നതിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ് നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതും നിങ്ങളുടെ രക്തയോട്ടം ശീഘ്ര ഗതിയിലാകുന്നതും ഇപ്പോൾ ഈ പറഞ്ഞുവെച്ച യുക്തി നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലെ അനുഭവവുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം പ്രാവശ്യം ദേഷ്യപ്പെട്ടുണ്ട് എന്നാൽ അത്രയധികം പ്രാവശ്യം ഒന്നും നിങ്ങൾ ദേഷ്യത്തിൻറെ കാരണത്തെ തിരിച്ചടിക്കാൻ ശ്രമിച്ചിട്ടില്ല ദേഷ്യപ്പെടുന്ന എല്ലാ തവണകളിലും നിങ്ങൾ അടികൂടുന്നതായി കാണുന്നില്ല അപ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് വർധിക്കുന്നതും രക്തയോട്ടത്തിന്റെ ശക്തി വർധിക്കുന്നതും എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് നിങ്ങൾ ആക്രമിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർധിക്കുകയും രക്തയോട്ടം ശക്തിപ്പെടുകയും ചെയ്യുകയാണോ അതോ നിങ്ങൾ പ്രതികരിക്കാൻ താൽപര്യമില്ലാത്ത രീതിയിൽ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് മന്ദഗതിയിൽ ആകുകയും രക്തയോട്ടം സാധാരണനിലയിൽ ആകുകയും ചെയ്യുകയാണോ അല്ല അത് ഒരിക്കലും അങ്ങനെയല്ല വികാരങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന രാസ വ്യതിയാനങ്ങളാണ് നിങ്ങൾ അടികൂടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിലേക്ക് നയിക്കുന്നത് എന്നാൽ ഹൃദയമിടിപ്പ് വർധിക്കുക എന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നു അതുപോലെതന്നെ രക്തയോട്ടം വർദ്ധിക്കുക എന്നതും വളരെ സ്വാഭാവികമായി തന്നെ സംഭവിക്കുന്നതാണ് അങ്ങനെ രക്തയോട്ടം വർദ്ധിക്കുമ്പോൾ കൈകളിലേക്ക് കൂടിയ രക്തപ്രവാഹം ഉണ്ടാവുകയും ഒരു അടിപിടിക്ക് നിങ്ങളെ സജ്ജമാക്കുകയും ചെയ്യുന്നു ഇത് വളരെ രസകരമായ ഒരു പ്രക്രിയയാണ് നമ്മൾ വീണ്ടും ഇതേ വിഷയം തന്നെ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യും അവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക മനുഷ്യൻ ഒരു സാമൂഹിക ജീവി ആണെന്നും നമ്മളെല്ലാവരും സമൂഹജീവികൾ ആണെന്നും അതുകൊണ്ടുതന്നെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു അടിപിടിയിൽ ഏർപ്പെടുന്നുവോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ നിങ്ങളെ വികാരം കൊള്ളിക്കുന്ന ആ സാഹചര്യം നിങ്ങളുടെ ശരീരത്തെ ഒരു അടിപിടിക്ക് സജ്ജമാക്കുന്നു എന്നതുമാണ് അതുകൊണ്ട് സ്വഭാവികമായി ഹൃദയമിടിപ്പ് വർധിക്കുന്നു സ്വാഭാവികമായിത്തന്നെ രക്തപ്രവാഹം വർധിക്കുന്നു എന്നാൽ സമൂഹത്തിലെ ഒരു മധ്യസ്ഥൻ ആ സോഷ്യൽ മോഡറേറ്റർ ആണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ അടിപിടി കൂടണമോ വേണ്ടയോ എന്ന് അതായത് ശാരീരികമായി നിങ്ങൾ അടിപിടി കൂടുവാൻ ഒരുക്കം ഉള്ള വ്യക്തിയാണ് എന്നുവരികിലും ഒരു സമൂഹത്തിൻറെ ഭാഗം എന്ന നിലയ്ക്ക് ആ സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും ചില നിബന്ധനകൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെ നിയന്ത്രിക്കുകയാണ് നിങ്ങൾ അടിപിടി കൂടണമോ വേണ്ടയോ എന്ന് അപകട മുന്നറിയിപ്പ് ഉളവാക്കുന്ന ഉത്തേജനങ്ങളെയും നിഷ്പക്ഷമായ ഉത്തേജനങ്ങളെയും മറ്റിതര ഉത്തേജനങ്ങളെയും താരതമ്യം ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ ഒരു സ്വാഭാവിക പ്രവണതയുണ്ട് എന്തുകൊണ്ടാണ് അപായ മുന്നറിയിപ്പിന് ഇത്ര വളരെ പ്രാധാന്യം നൽകുന്നത് ഞാനിപ്പോൾ ഏതെങ്കിലുമൊരു ദേഷ്യപ്പെട്ടിരിക്കുന്ന ജീവിയെ എൻറെ മുൻപിൽ കാണുകയാണെങ്കിൽ എന്നിൽ തന്നെ വളരെ വലിയ അളവിലുള്ള ഒരു ഭയം ഉണർന്നു വരികയും യഥാർത്ഥത്തിൽ ഇത് ഒരു അപായ മുന്നറിയിപ്പായി അതിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടണം എന്നത് എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ആയിത്തീരുകയും ചെയ്യുന്നു എൻറെ മുൻപിൽ കോപിച്ച് നിൽക്കുന്ന ആ ജീവിക്ക് എന്നോടുള്ള കോപത്തിന്റെ അളവ് ഞാൻ വിലയിരുത്തുകയും അതിൻറെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ ആരോഗ്യപരമായ ഒരു അതിജീവനം സാധ്യമല്ല എന്ന് കരുതുകയും അതിൻറെ അടിസ്ഥാനത്തിൽ ഞാൻ എന്നോട് തന്നെ എൻറെ രക്ഷയ്ക്ക് എത്താൻ ആവശ്യപ്പെടുകയും ഇക്കാര്യം എൻറെ തലച്ചോറിലേക്ക് വളരെ വേഗത്തിൽ അറിവു നൽകുകയും എൻറെ തലച്ചോറ് മുൻഗണനാക്രമത്തിൽ അതിന്മേൽ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു അതുവഴി ഞാൻ മനസ്സിലാക്കുകയാണ് വികാരങ്ങളെക്കാൾ മുൻഗണനാക്രമത്തിൽ കൈകാര്യം ചെയ്യുന്നത് അപായ ഭീഷണികളെ ആണ് എന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സായന്തനത്തിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുമായി ഒരു സ്ഥലത്തിരുന്ന് പരസ്പരം സംസാരിക്കുകയും തമാശകൾ പറയും ആ സന്ധ്യാസമയം ആസ്വദിക്കുകയുമാണ് പെട്ടെന്നാണ് നിങ്ങളുടെ മുൻപിലുള്ള പുൽത്തകിടിയിൽ നിങ്ങൾ ഒരു പാമ്പിനെ കാണുന്നത് അത് നിങ്ങളിൽ ഭയം ഉളവാക്കുന്നു ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളിൽ ഭയം ഉണർത്തിയ നിങ്ങളുടെ മുൻപിലുള്ള ആ ജീവിയെ ആണ് ആ സാഹചര്യത്തിലുള്ള മറ്റൊന്നും തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നതേയില്ല അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന തമാശകൾ എല്ലാം പെട്ടെന്ന് മരവിക്കുന്നു തമാശകളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളിൽ ഭയം ഉളവാക്കിയ നിങ്ങളുടെ മുൻപിലുള്ള ആ ജീവിയെ എങ്ങനെ അതിജീവിക്കാം എന്നാണ് ചിന്തിക്കുന്നത് വൈകാരിക പ്രകടനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊരു വളരെ രസകരമായ നടപടിക്രമാണ് വൈകാരിക പ്രകടനങ്ങളും അതിജീവനത്തിനുള്ള പ്രാധാന്യവും നിർദ്ദേശിക്കുന്നത് ഉത്തേജനങ്ങൾക്ക് ശ്രദ്ധാപൂർവ്വമായ ഒരു മുൻഗണന ഉണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ പാമ്പുകൾ പോലുള്ള ജീവികൾ കോപിക്കുന്ന വ്യക്തികൾ എന്നു തുടങ്ങി എല്ലാ കാര്യങ്ങളുടെ കാര്യത്തിലും തലച്ചോറ് മുൻഗണനാക്രമത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ശരീരശാസ്ത്രപരമായ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്നതിന് അതിൻറെ പ്രവർത്തന മാതൃകയെ ഒന്ന് പരിശോധിക്കാം നമുക്കൊരു കാര്യം ഓർത്തിരിക്കാം നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് ഒന്നാമത് ജീവശാസ്ത്ര രസതന്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയും രണ്ടാമത് നാഡീവ്യൂഹ രസതന്ത്രത്തിന്റെ അളവുകോലുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നാഡീവ്യൂഹ രസതന്ത്രത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇന്ദ്രിയാനുഭൂതി സംബന്ധമായ വ്യതിയാനങ്ങൾ അതുകൂടാതെ പെരുമാറ്റ രീതിയിലെ രണ്ടുഘടകങ്ങൾ അതായത് ചലനാത്മകവും ബുദ്ധിപരവുമായ ഘടകങ്ങൾ ഇപ്പോൾ നമുക്ക് പ്രവർത്തനമാതൃക നോക്കി കൂടുകയും കുറയുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ എന്ന് ഒന്ന് വിലയിരുത്താം ഉത്തേജനം കൂടുന്ന സാഹചര്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് ഉത്തേജനം കുറയുന്ന സാഹചര്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് ഓരോ സാഹചര്യവും ഏതുതരത്തിലുള്ള വികാരത്തിലേക്കാണ് നയിക്കുന്നത് ഒരുപക്ഷേ പെട്ടെന്നുള്ള ഒരു വർദ്ധനവ് ഉത്തേജനത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അതൊരുപക്ഷേ ഭാവാത്മകമായും നിഷേധാത്മകമായും ഉള്ള വികാരങ്ങളെ ഉളവാക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ താല്പര്യം സന്തോഷം ഇതെല്ലാം ഭാവാത്മകമായ വികാരങ്ങളാണ് അതേസമയം ഭയം ഒരു നിഷേധാത്മകമായ വികാരമാണ് എന്നാൽ ഉത്തേജനത്തിൽ പെട്ടെന്നുള്ള ഒരു വർദ്ധനവ് സംഭവിക്കുകയാണെങ്കിൽ അതൊരുപക്ഷേ ഭാവാത്മകമായ വികാരങ്ങളെ ഉണർത്താം അല്ലെങ്കിൽ നിഷേധാത്മകമായ വികാരങ്ങളെ ഉണർത്താം അത് ഉത്തേജനത്തിൽ വന്ന പെട്ടെന്നുള്ള വർദ്ധനവിനെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഉത്തേജനത്തിൽ പെട്ടെന്നുള്ള വർധനവാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ നിഷേധാത്മക വികാരങ്ങളെയും ഭാവാത്മക വികാരങ്ങളെയും ഉണർത്താനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതേസമയം ഉത്തേജനത്തിൽ പെട്ടെന്നുള്ള കുറവാണ് സംഭവിക്കുന്നതെങ്കിൽ അത് സ്വാഭാവികമായും ഭാവാത്മകമായ വികാരങ്ങളെയാണ് ഉണർത്തുന്നത് അപ്പോൾ അവിടെ രസകരമായ ഒരു കാര്യമുണ്ട് അതായത് പെട്ടെന്നുള്ള വർദ്ധനവ് എന്ന് പറഞ്ഞാൽ അതൊരുപക്ഷേ ഭാവാത്മകമോ നിഷേധാത്മകമോ ആകാം എന്നാൽ പെട്ടെന്ന് കുറയുന്നു എന്നുപറഞ്ഞാൽ തീർച്ചയായും ഭാവാത്മകമായ വികാരങ്ങൾ മാത്രമായിരിക്കും എന്നാൽ ഉത്തേജനത്തിന്റെ അളവ് സ്ഥിരമാണെങ്കിലോ നേരത്തെ നമ്മൾ സംസാരിച്ചത് ഉത്തേജനത്തിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉത്തേജനത്തിന്റെ അളവ് സ്ഥിരമായി നിൽക്കുമ്പോഴുള്ള ഉള്ള കാര്യമാണ് ഉത്തേജനത്തിന്റെ അളവ് കുറഞ്ഞ നിലയിൽ സ്ഥിരമായി നിലനിൽക്കുകയാണെങ്കിൽ അത് നിഷേധാത്മക വികാരങ്ങളിലേക്ക് ആയിരിക്കും നയിക്കുക എന്നാൽ ഉത്തേജനത്തിന്റെ അളവ് കൂടിയ നിലയിൽ സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നിഷേധാത്മക വികാരങ്ങളിലേക്കായിരിക്കും നയിക്കുന്നത് ഒരു രസകരമായ കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉത്തേജനത്തിന്റെ അളവ് കൂടിയ നിലയിൽ സ്ഥിരമായി നിന്നാലും ഉത്തേജനത്തിന്റെ അളവ് കുറഞ്ഞ നിലയിൽ സ്ഥിരമായി നിന്നാലും രണ്ടു കാര്യത്തിലും നിഷേധാത്മക വികാരങ്ങളിലേക്കാണ് അത് വ്യക്തിയെ നയിക്കുന്നത് ഉദാഹരണത്തിന് കുറഞ്ഞ അളവിൽ ഉള്ള ഉത്തേജനം സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ അതൊരുപക്ഷേ ദുഃഖ ഭാവത്തിലേക്ക് വ്യക്തിയെ നയിച്ചേക്കാം നിഷേധാത്മക വികാരങ്ങൾ ആയ നിരാശ കോപം എന്നിവയുടെ കാര്യമെടുത്താൽ അവക്ക് ഉയർന്ന നിലയിലുള്ള ഉത്തേജനം ഉണ്ടായിരിക്കും പക്ഷേ പ്രകൃത്യാ നിഷേധാത്മകമാണ് അപ്പോൾ സ്ഥിരമായി ഉത്തേജനം ഉയർന്ന നിലയിൽ ആണെങ്കിലും താഴ്ന്ന നിലയിൽ ആണെങ്കിലും രണ്ടു കാര്യത്തിലും പ്രകൃത്യാ നയിക്കപ്പെടുന്നത് നിഷേധാത്മക വികാരങ്ങളിലേക്കാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് മിതമായ തോതിൽ ഉയർന്ന ഉത്തേജനം ആണ് ഉള്ളതെങ്കിൽ അത് സാധാരണയായി ഭാവാത്മക വികാരങ്ങളെ ഉണർത്തുന്നു ഉദാഹരണത്തിന് നമുക്ക് സന്തോഷം എടുക്കാം സന്തോഷം എന്നുപറയുന്നത് അടിസ്ഥാനപരമായി താരതമ്യേന ഉയർന്ന ഒരു ഉത്തേജനമാണ് അപ്പോൾ ഇത് വളരെ രസകരമായ ഒരു മാതൃകയാണ് തൊട്ടുമുൻപുള്ള പാരഗ്രാഫിൽ നമ്മൾ കണ്ടത് ഉത്തേജനത്തിൽ പെട്ടെന്നുള്ള ഒരു കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവാത്മകമായ വികാരങ്ങൾ ആയിരിക്കും ഉളവാകുക രണ്ടാമത്തെ കാര്യത്തിൽ നമ്മൾ കണ്ടത് ഉത്തേജനത്തിന്റെ അളവ് സ്ഥിരമായി ഉയർന്നതോ താഴ്ന്നതോ അല്ല മറിച്ച് ഉത്തേജനത്തിന്റെ അളവ് ഒരു മിതമായ തോതിൽ ആണ് എന്നുവരികിൽ വ്യക്തിക്ക് ഭാവാത്മകമായ വികാരങ്ങൾ ഉളവാകുന്നു അയാൾക്ക് നിഷേധാത്മകമായ വികാരങ്ങൾ ഉളവാകുന്നില്ല എന്നാൽ ഉത്തേജനത്തിന്റെ അളവ് ഉയർന്ന രീതിയിലോ താഴ്ന്ന രീതിയിലോ സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നിഷേധാത്മക വികാരങ്ങൾ മാത്രമായിരിക്കും ഉണർത്തുന്നത് ജീവശാസ്ത്ര രസതന്ത്ര നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ വികാരത്തിന്റെ അനുഭൂതികളെ വിലയിരുത്തുമ്പോൾ അവയുടെ നിയന്ത്രണം പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനത്തെയും അതുപോലെതന്നെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെയും ആണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വച്ചിരുന്നു അതായത് ഹൃദയമിടിപ്പും രക്തചംക്രമണവും വർധിക്കുന്നു എന്ന് ഇതാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ വരുന്ന വ്യതിയാനങ്ങളുടെ അളവ് നമ്മുടെ അനുദിന ജീവിതത്തിൻറെ അനുഭവങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മിൽ ഇന്ദ്രിയാനുഭൂതി സംബന്ധമായ ഒരു രൂപീകരണം ഉണ്ട് അതാണ് നമ്മിൽ വികാരങ്ങളെ ഉണർത്തുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് കരുതുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു വച്ചത് അതായത് അവബോധത്തെ കുറിച്ചുള്ള നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വച്ചിരുന്നു എങ്ങനെയാണ് ഇന്ദ്രിയാനുഭൂതികൾ തലച്ചോറിലേക്ക് സംവഹിക്കപ്പെടുന്നത് എന്ന് നമ്മുടെ വികാരങ്ങളെ ഉണർത്തുന്ന ഇന്ദ്രിയാനുഭൂതികളെ കുറിച്ചുള്ള വിവരങ്ങളെ തലച്ചോറിലേക്ക് സംവഹിക്കുന്നതിന് രണ്ടു വഴികളാണുള്ളത് ഒന്നാമത്തേത് തലാമസ് അമിഗ്ഡല ഹൈപ്പോതലാമസ് ഏറ്റവും അവസാനം അത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ പ്രവർത്തിപ്പിക്കുന്നു രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഇന്ദ്രിയാനുഭൂതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഹയർ കോർട്ടിക്കൽ ഏരിയയിലേക്ക് പോകുന്നു ഇത് വളരെ സാവധാനം ഉള്ള ഒരു പ്രക്രിയയാണ് അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വ്യക്തിയെ തനിക്ക് അനുഭവപ്പെട്ട വികാരത്തെ വിലയിരുത്തുന്നതിന് അനുവദിക്കുന്നു എന്നുവച്ചാൽ രണ്ട് സമ്പ്രദായമാണ് നിലവിലുള്ളത് അത് ഒന്ന് അടിസ്ഥാനപരമായി വളരെ വേഗത്തിൽ ചലിക്കുന്നു ഇവിടെ നൽകിയിട്ടുള്ള ചിത്രത്തിൽ ചുവന്ന വൃത്തത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ ഏറ്റവും അവസാനം ANS ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ പ്രവർത്തിപ്പിക്കുന്ന തലാമസ് അമിഗ്ഡല ഹൈപ്പോതലാമസ് എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം ഇത് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു സമ്പ്രദായമാണ് സാവധാനത്തിലുള്ള സമ്പ്രദായം എന്നു പറയുന്നത് വാസ്തവത്തിൽ നിങ്ങളെ നിങ്ങൾക്ക് അനുഭവപ്പെട്ട വികാരത്തെ ഒരു വിലയിരുത്തലിന് അനുവദിക്കുന്നു ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും ഹയർ കോർട്ടിക്കൽ ഏരിയ ആണ് ഇത് വളരെ സാവധാനത്തിലുള്ള ഒരു പ്രവർത്തനമാണ് പക്ഷേ ഒരിക്കൽ ഈ വിലയിരുത്തൽ നടപടി പൂർത്തിയായി കഴിഞ്ഞാൽ അത് തീർച്ചയായും നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു ആദ്യത്തെ മാർഗം എന്നുപറഞ്ഞ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ പ്രവർത്തനനിരതമാക്കിക്കഴിഞ്ഞാൽ അഡ്രിനൽ ഗ്ലാൻഡ്സ് ചിത്രത്തിലേക്ക് കടന്നു വരികയും എപ്പിനെഫ്രൈൻ നോറെപ്പിനെഫ്രൈൻ എന്നീ രണ്ട് സ്രവങ്ങൾ ഉൽപാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എപ്പിനെഫ്രം നോറോപ്പിനെഫ്രം എന്നീ രണ്ട് സ്രവങ്ങൾ ഉൽപാദിപ്പിക്കപ്പെടുന്നത് ധാരാളം വൈകാരിക അവസ്ഥകൾ അകമ്പടിയായി വരുന്നതിന് കാരണമാകുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ വികാരങ്ങളുണ്ട് അവയ്ക്ക് തലച്ചോറിൻറെ പ്രവർത്തനതോതിൽ വ്യത്യസ്തങ്ങളായ മാതൃകകളുണ്ട് മാത്രമല്ല ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അളവിൽ പോലും വ്യത്യാസം ഉണ്ടാകുന്നു ANS ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് സാവധാനത്തിലുള്ള പ്രവർത്തന സമ്പ്രദായം എന്ന് പറയുന്ന രണ്ടാമത്തെ വഴി അതാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ട വികാരത്തെ പറ്റി ഒരു വിലയിരുത്തൽ നടത്താൻ നിങ്ങളെ അനുവദിക്കുന്നത് നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കണം വികാരത്തെ ഉണർത്തുന്ന ഇന്ദ്രിയാനുഭൂതി തലച്ചോറിൽ സ്വീകരിച്ച് ഹൈക്കോർട്ടിക്കൽ ഏരിയയിൽ അത് അതിൻറെതായ നടപടിക്രമത്തിലൂടെ കടന്നു പോകുമ്പോൾ വികാരങ്ങളെ രണ്ടു വീക്ഷണകോണിലൂടെയാണ് നിരീക്ഷിക്കുന്നത് അതായത് ലക്ഷ്യത്തിലേക്ക് എത്താൻ അതെന്തുമാത്രം യുക്തമാണ് അല്ലെങ്കിൽ യുക്തമല്ല എന്ന വീക്ഷണകോണിലൂടെ അപ്പോൾ നിങ്ങൾക്ക് വികാരങ്ങളെ കൃത്യമായി രണ്ടായി വിഭജിക്കാം അതായത് ലക്ഷ്യം നേടാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തിക്ക് യുക്തമായ വികാരങ്ങൾ ലക്ഷ്യപ്രാപ്തിക്ക് യുക്തമല്ലാത്ത വികാരങ്ങൾ എന്നിങ്ങനെ ലക്ഷ്യപ്രാപ്തിക്കു സഹായിക്കുന്ന വികാരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നത് സന്തോഷം സ്നേഹം ആത്മാഭിമാനം എന്നിവയാണ് ദുഃഖം ഉൽക്കണ്ഠ ലജ്ജ കുറ്റബോധം അസൂയ വെറുപ്പ് എന്നീ വികാരങ്ങൾ ലക്ഷ്യപ്രാപ്തിക്കു സഹായിക്കാത്ത വികാരങ്ങളുടെ ഗണത്തിൽപ്പെടുന്നു എന്താണ് സംഭവിക്കുന്നത് ലക്ഷ്യപ്രാപ്തിക്ക് സഹായിക്കുന്നതും ലക്ഷ്യപ്രാപ്തിക്ക് സഹായിക്കാത്തതുമായ വികാരങ്ങളെ അടിസ്ഥാന വിലയിരുത്തൽ മെക്കാനിസത്തിൽ അടിസ്ഥാനപരമായി രണ്ടു വീക്ഷണകോണിലൂടെയാണ് കാണുന്നത് രണ്ടാമത്തെ വിലയിരുത്തൽ നടപടിക്രമത്തിൽ ആദ്യത്തെ അരിപ്പ എന്ന് പറയുന്നത് അടിസ്ഥാന വിലയിരുത്തൽ നടപടിക്രമം തന്നെയാണ് അടിസ്ഥാന വിലയിരുത്തൽ നടപടിക്രമം നോക്കുന്നത് ലക്ഷ്യത്തിന്റെ സാംഗത്യവും ലക്ഷ്യപ്രാപ്തിക്ക് ഉപയുക്തമാണോ അല്ലയോ എന്നതും അഹംബോധത്തിന്റെ പങ്കാളിത്തവും എന്ന മൂന്ന് അളവുകോലുകൾ അഥവാ മാനദണ്ഡങ്ങളാണ് രണ്ടാമത്തെ വിലയിരുത്തൽ നടപടിക്രമത്തിൽ രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത് ഒരു പ്രത്യേക അവസ്ഥാവിശേഷത്തിന് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് അതല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥാവിശേഷത്തിന് ആർക്കാണ് ബഹുമതി നൽകേണ്ടത് എന്നീ കാര്യങ്ങളാണ് നോക്കുന്നത് ഇതിൻറെ നേരെ വിപരീതമായ അവസ്ഥയും ചെറുക്കാനുള്ള ശേഷിയും നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ അരിപ്പ എന്ന് പറയുന്നത് രണ്ടാമത്തെ വിലയിരുത്തൽ നടപടിക്രമം തന്നെയാണ് അത് ഉപയോഗിക്കുന്നത് ഭാവി പ്രതീക്ഷയെയാണ് നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ വിലയിരുത്തൽ നടപടിക്രമത്തിലേക്ക് വരാം ലക്ഷ്യത്തിന് സാംഗത്യം അഥവാ പ്രസക്തിയുണ്ട് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു ലക്ഷ്യം ക്രമീകരിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് ഒരു ക്ളാസിൽ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അതായത് ലക്ഷ്യം നേടാൻ സാധിക്കുന്നതും ലക്ഷ്യം നേടാനുള്ള ശ്രമത്തിൽ ചില തടസ്സങ്ങൾ നേരിടുന്നതും ആയ സംഭവങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ഓർത്തെടുക്കുവാൻ സഹായിക്കുന്നു ഇങ്ങനെയാണ് ഓർമ്മയും വികാരങ്ങളും തമ്മിൽ പരസ്പരം ലയിച്ച് കിടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നിങ്ങൾ നിങ്ങൾക്കായി ഒരു ലക്ഷ്യം ക്രമീകരിച്ചിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ വികാരം നിങ്ങൾ നിങ്ങൾക്കായി ക്രമീകരിച്ചിരിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യം നേടുവാൻ എന്തുമാത്രം ഉപയുക്തമാണ് നിങ്ങൾ അനുഭവിക്കുന്ന ആ വികാരം നിങ്ങളുടെ ലക്ഷ്യം നേടുവാൻ ഉപയുക്തമാണോ അതോ നിങ്ങളുടെ ലക്ഷ്യം നേടുവാൻ ഉപയുക്തം അല്ലയോ ഇതാണ് രണ്ടാമത് പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ അഹംബോധത്തിന്റെ പങ്കാളിത്തത്തിന്റെ അളവ് നിങ്ങളുടെ അഹംബോധം ഇതിൽ പങ്കു കൊള്ളേണ്ടതാണോ അല്ലയോ എന്ന് നിങ്ങൾ കണ്ടെത്തിയോ ഉദാഹരണത്തിന് നിങ്ങൾ കാണുകയാണ് നിങ്ങളുടെ അഹംബോധം നടപടിക്രമത്തിൽ പങ്കുകൊള്ളാൻ ഉള്ളതാണ് എന്ന് വരികിൽ അത് ലക്ഷ്യപ്രാപ്തിക്ക് ഉപയുക്തമായതാണ് നിങ്ങളുടെ ലക്ഷ്യത്തിന് സാംഗത്യം അഥവാ പ്രസക്തി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാഭിമാനത്തെ കുറിച്ച് ചിന്തിക്കാം കാരണം അത് നിങ്ങളുടെ അഹംബോധത്തെ വളരെയധികം പെരുപ്പിക്കും ഇപ്പോൾ നിങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തെ നിങ്ങളുടെ അഹംബോധത്തെ വർധിപ്പിക്കാനുതകുന്നകല്ല എന്ന് കാണുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടാകും ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ലക്ഷ്യത്തിന്റെ സാങ്കത്യവും അഥവാ പ്രസക്തിയും ലക്ഷ്യത്തിന്റെ യുക്തിയും അല്ലെങ്കിൽ അനുയോജ്യതയും നിങ്ങളുടെ അഹംബോധത്തിനുള്ള പങ്കാളിത്തത്തിന്റെ അളവ് ഈ മൂന്ന് അരിപ്പകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് അടിസ്ഥാന വിലയിരുത്തൽ നടപടിക്രമത്തിലേക്ക് നമ്മെ നയിക്കുന്നു വിലയിരുത്തൽ നടപടിക്രമത്തിലൂടെ കടന്നു പോകുമ്പോൾ അടിസ്ഥാന വിലയിരുത്തൽ നടപടിക്രമം ഒട്ടു മിക്കവാറും നമ്മുടെ എല്ലാ വികാരങ്ങളും തന്നെ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയുന്നു വളരെ എളുപ്പത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക കാര്യത്തിന് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന് തിരിച്ചറിയേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ രണ്ടാമത്തെ അടിസ്ഥാന വിലയിരുത്തൽ നടപടിക്രമത്തിലൂടെ കടന്നു പോകുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു കാണാതായിരിക്കുന്നു അങ്ങനെ ഒരു സംഗതിക്ക് കെൽപ്പുള്ള ആൾ ആരാണ് ആരാണ് അതിനു സമാധാനം പറയേണ്ടത് ആരാണ് അതിന് ഉത്തരവാദി ഇതിന് നേരെ വിപരീതമായി ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾക്ക് വ്യക്തികളെ അഭിനന്ദിക്കേണ്ടതായി വരുമ്പോൾ ആരാണ് അത് ചെയ്തതെന്ന് നമ്മൾ അന്വേഷിക്കും അപ്പോൾ ആ വ്യക്തി പറയുകയായിരിക്കും അതെ ഞാൻ ആണ് അത് ചെയ്തത് ആ വ്യക്തി അതിൻറെ അഭിനന്ദനം സ്വീകരിക്കുന്നു അദ്ദേഹം അതിൽ അഭിമാനബോധം ഉള്ളവനാണ് കുറ്റപ്പെടുത്തുക അഭിനന്ദിക്കുക എന്നീ കാര്യങ്ങൾക്ക് പുറമേ ചില സാഹചര്യങ്ങളിൽ രണ്ടാമത് ഒരു കാര്യം വരുന്നുണ്ട് കോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നു പറയും അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആരാണ് നഷ്ടത്തിന് ഉത്തരവാദി ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എനിക്കത് പരിഹരിക്കാൻ സാധിക്കുമോ എനിക്ക് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ ഉവ്വ് ഇല്ല എന്ന ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ കോപ്പിംഗ് പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തിയെ കണ്ടെത്തുന്നു ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുവാൻ ഉണ്ടായിട്ടുള്ള നഷ്ടം നികത്തുവാൻ ഞാൻ എന്തുമാത്രം കെൽപ്പുള്ള ആളാണ് അതാണ് രണ്ടാമത്തെ അടിസ്ഥാന വിലയിരുത്തൽ നടപടിക്രമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം രണ്ടാമത്തെ അടിസ്ഥാന വിലയിരുത്തൽ നടപടിക്രമത്തിലെ രണ്ടാമത്തെ അരിപ്പ എന്ന് പറയുന്നത് ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് സാഹചര്യങ്ങൾ ഒരേപോലെ ആണെങ്കിൽ അടുത്തുവരുന്ന രണ്ട് ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് സാഹചര്യത്തെ കൈകാര്യം ചെയ്യുവാൻ എനിക്ക് സാധിക്കും എന്നതാണ് അതാണ് എൻറെ ഭാവി പ്രതീക്ഷ എന്നു പറയുന്നത് എൻറെ മുന്നിലേക്ക് കടന്നു വരാവുന്ന ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുവാൻ എനിക്ക് സാധിക്കും എന്ന് ഞാൻ എന്നെത്തന്നെ നോക്കി കാണുകയാണെങ്കിൽ ഞാൻ അതിനെ ആശ്വാസത്തോടെ ആണ് നോക്കി കാണുക ഇവിടെ ഒരു നിഷേധാത്മക വികാരം ഉണ്ടാവുക സാധ്യമല്ല മറിച്ച് ഞാൻ കരുതുകയാണ് എനിക്ക് അവസരം നഷ്ടപ്പെട്ടിരിക്കുന്നു ഭാവിയിൽ എൻറെ മുന്നിൽ വരാവുന്ന ഈ സാഹചര്യത്തെയോ ഈ കാര്യത്തെയോ കൈകാര്യം ചെയ്യുവാൻ ഞാൻ വേണ്ടത്ര യോഗ്യതയോ കഴിവോ ഇല്ലാത്ത ആളാണ് ഇങ്ങനെയാണെങ്കിൽ അവിടെ നിഷേധാത്മക വികാരം വളർന്നു വരാനാണ് സാധ്യത ഞാൻ ആ സാഹചര്യത്തെക്കുറിച്ച് ഭയപ്പാടുള്ള ആളായിരിക്കും നമ്മുടെ വികാരങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ ആയ അല്ലെങ്കിൽ വികാരങ്ങളായ ശാരീരികമായ ഉണർച്ച അത് അടിപിടിയിലേക്ക് നയിക്കുന്ന അവസ്ഥ അടിപിടിയോടുള്ള പ്രതികരണം ഈ മൂന്നു കാര്യങ്ങളാണ് കടന്നുവരുന്നത് ഈ ക്ളാസിൻറെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചുതരാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചുതരാൻ ഞാൻ ആഗ്രഹിക്കുന്നതിനുള്ള കാരണം ഈ വീഡിയോയിൽ ഒരേ പോലെ വസ്ത്രം ധരിച്ച ആളുകളെ കാണുന്നു അവർ ഒരു കൽപ്പന പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടവരാണ് നിങ്ങൾ ജോലിസ്ഥലത്ത് ആയിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നു നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വിലയിരുത്തൽ നടപടിക്രമം ഉണ്ട് അതിനുശേഷം വൈകാരികമായ പ്രതികരണം ഉണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ ലാത്തിച്ചാർജിൽ നിന്നും സ്വയം തന്നെത്തന്നെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ഈ ആകാശ നീല കളർ ഉള്ള ഷർട്ട് ധരിച്ചിരിക്കുന്ന മനുഷ്യനെ ഒന്നു നോക്കൂ അദ്ദേഹത്തിന്റെ എല്ലാ പരിശ്രമങ്ങളും നിഷ്ഫലമായി പോവുകയാണ് പോലീസുകാർ അദ്ദേഹത്തെ ചുറ്റും വളഞ്ഞിരിക്കുന്നു അപ്പോഴാണ് ആ ഓഫീസർ കടന്നുവരുന്നത് അദ്ദേഹം കാണുകയാണ് ഈ ഒറ്റപ്പെട്ട മനുഷ്യനെ അദ്ദേഹത്തിനു ചുറ്റും പോലീസുകാരാണ് ഈ ഓഫീസർ പോലീസുകാരെ ആ മനുഷ്യനെ അടിക്കുന്നതിൽ നിന്നും വിലക്കുകയാണ് ശരിയായ ചിന്താശേഷിയില്ലാത്ത ചില മനുഷ്യർ സ്വയം വിലയിരുത്തൽ നടത്താനാകാത്ത ചില മനുഷ്യർ അവർ ആ ഒരൊറ്റ വ്യക്തിയുടെമേൽ ലാത്തിചാർജ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുകയാണ് തങ്ങളെ തന്നെ നിയന്ത്രിക്കുവാൻ സാധിക്കാത്ത ഒരു കൂട്ടം മനുഷ്യരെ അതേസമയം നിങ്ങൾ കാണുന്നു പ്രവർത്തികൾക്ക് ചിന്താശേഷിയും നിയന്ത്രണവുമുള്ള ഒറ്റപ്പെട്ട ഒരു മനുഷ്യനെ മർദ്ദിക്കരുതെന്ന് ചിന്തിക്കുന്ന വേറൊരു കൂട്ടം മനുഷ്യരെ ഇതൊരു അനിയന്ത്രിതമായ പ്രതികരണമാണ് ഇതാണ് ബുദ്ധിപരമായ വൈകാരിക നിയന്ത്രണം